ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ I എല്ലാവർക്കും നമസ്ക്കാരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള ഞങ്ങളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ ഉൾക്കൊള്ളുന്ന മൊഡ്യൂൾ പ്രൊജക്ഷനുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചു ഒന്നും മൂന്നും ക്വാഡ്രന്റ് പ്രൊജക്ഷനുകളിൽ നമ്മൾ എന്താണ് കണ്ടത് പ്ലെയിനുകളിലേക്കു

തേർഡ് ക്വാഡ്രന്റ് വലതുവശത്തേക്ക് പ്രൊജക്ഷനിലേക്കാണ് കാഴ്ച വരുന്നത് നമ്മൾ വലതുഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അതാര്യമായ പ്ലെയിനിലേക്കുള്ള സമ്പ്രദായത്തെ നമ്മൾ വ്യാപകമായി പിന്തുടരുന്നു അതിനാൽ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണിത് ഈ ദിശയിൽ നിന്ന് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ കാരണം നമ്മൾ നോക്കാൻ ശ്രമിക്കുന്ന ഈ പ്ലെയിൻ ആയി വരുന്നു ആദ്യമായി നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത് ഇതായതിനാൽ ഇതിനെ നമുക്ക് ഫ്രന്റ് വ്യൂ വിലും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇനി നമ്മൾ ഈ വ്യൂവിൽ നിന്നും നോക്കുകയാണെങ്കിൽ അത് ഒരു വലിയ വൃത്തത്തിനുള്ളിൽ മറ്റൊരു വൃത്തം പോലെ കാണപ്പെടുന്നു അതിനാൽ ഒരു പ്ലെയിനിൽ ചെയ്യുകയോ മടക്കുകയോ ചെയ്യണം നമ്മൾ അത് മടക്കിക്കഴിഞ്ഞാൽ അത് പ്ലെയിനിൽ ഒരു പൂർണ്ണ വൃത്തമായി മാറുന്നു അതിനാൽ ഈ മുഴുവൻ ഒബ്ജക്റ്റിനുമായി ഇങ്ങനെയാണ് നമ്മൾ ഒരു ചിത്രം നിർമിക്കുന്നത് അടുത്തതായി ഇതാണ് ആ വസ്തുവിന്റെ ഫ്രന്റ് വ്യൂ അതിലൂടെ കടന്നുപോകുന്നു അതിനാൽ അതേ രേഖ ഉപയോഗിച്ച് കൊണ്ട് നാം പ്രതിനിധീകരിക്കുന്നു തേർഡ് ആംഗിൾ ഇതാണ് ഇത് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു അത് അവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു അതിനാൽ നമ്മൾ ആ പ്ലെയിൻ മുഴുവൻ ഫ്ലിപ്പു നമുക്ക് ലഭിക്കും ഈ ചിഹ്നങ്ങളാൽ ഒബ്ജക്റ്റിന് വിതരണം ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ പ്രൊജക്ഷനുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന രീതികൾ നമുക്ക് പരിശോധിക്കാം ഏതു പ്രൊജക്ഷനെയും നമ്മൾ രണ്ട് രീതികളായി വിഭജിക്കുന്നു ഒന്ന് സ്വാഭാവിക രീതിയാണ് മറ്റൊന്ന് ഗ്ലാസ് ബോക്സ് ലഭിക്കും അതാണ് നമ്മൾ സ്വാഭാവിക രീതി എന്ന് വിളിക്കുന്നത് ഗ്ലാസ് ബോക്സ് രീതിയിൽ ഈ ഒബ്ജക്റ്റിന് ചുറ്റും നമ്മൾ ഒരു സാങ്കൽപ്പിക ബോക്സ് നിർമ്മിക്കുന്നു അവയിൽ ചിലത് സുതാര്യമായ പ്ലെയിൻസ് ചുറ്റും നടക്കുക അതുവഴി നമുക്ക് വിവിധ വ്യൂസ് ലഭിക്കുന്നു ഇതിനെ നമ്മൾ ഗ്ലാസ് ബോക്സ് രീതി എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് ഒരു വസ്തു ദിശയിലേക്ക് അതിനാൽ ഇവിടെ നമ്മൾ ആ വസ്തുവിനെ ആ നിശ്ചിത കോണിലൂടെ തിരിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കാണാനാകുന്ന അവസ്ഥയിലായിരിക്കും അതിനാൽ സ്വാഭാവിക രീതിയിൽ ആ വസ്തുവിനെ തിരിക്കുന്നതിലൂടെ അത് ആ ആകൃതിയിൽ നമുക്ക് കാണാനാകും ഇതിനെയാണ് നമ്മൾ ആ വസ്തുവിന്റെ ഫ്രന്റ് വ്യൂ

അതിനാൽ ആ ദിശയിലേക്ക് അത് തിരിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ പേപ്പറിന്റെ തലത്തിലേക്ക് അല്ലെങ്കിൽ വീണ്ടും നോർമൽ ആക്കുന്നതിനാൽ ഈ ഒബ്ജക്റ്റ് മുഴുവൻ ആ തലത്തിൽ നമ്മുടെ ദിശയിലേക്ക് വരുന്നു അതുപോലെ ആ ദിശയിൽ പ്ലെയിനിനു ലംബമായി ലഭിക്കും ഇതിനെയാണ് നമ്മൾ സ്വാഭാവിക രീതി എന്ന് വിളിക്കുന്നത് നിരീക്ഷകനെ എല്ലായ്പ്പോഴും ഉറപ്പിച്ചിരിക്കും ഒബ്ജക്റ്റ് നിരീക്ഷകന്റെ കാഴ്ചയിലായിരിക്കുന്ന തരത്തിൽ തിരിക്കും ഇങ്ങനെ നമുക്ക് പല തരത്തിലുള്ള വ്യൂസ് ലഭിക്കും ഈ സ്വാഭാവിക രീതിയെ നമ്മൾ വിളിക്കുന്നു മറ്റൊരു രീതിയാണ് ഗ്ലാസ് ബോക്സ് രീതി എന്ന് വിളിക്കാം ഇതാണ് ഫ്രണ്ട് വ്യൂ പ്രൊജക്ഷൻ നമ്മൾ ഈ രീതി ഉപയോഗിക്കുകയാണെകിൽ അവൻ കാണാൻ പോകുന്നതെന്താണെന്ന് പ്രൊജക്ഷൻ ചെയ്യുക അത് ഈ ആകൃതിയിലായിരിക്കും ഇതിനെയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ വീണ്ടും വലതുവശത്തെ കാഴ്ചയ്ക്കായി എന്ന് വിളിക്കുന്നു അതിനാൽ ഗ്ലാസ് ബോക്സ് രീതിയിൽ നമ്മൾ ഈ കാഴ്ചകൾ നിർമ്മിക്കുന്നു അത് പ്ലെയിനുകളിലേക്കു പ്രൊജക്റ്റുചെയ്യുന്നു തുടർന്ന് അവയെ മടക്കിക്കളയുകയോ അല്ലെങ്കിൽ തിരിക്കുകയോ ചെയ്യുന്നതിലൂടെ വ്യത്യസ്ത കാഴ്ചകൾ ലഭിക്കും ഉദാഹരണത്തിന് നമുക്ക് ഇത് നോക്കാം പ്രൊജക്ഷന് ശേഷം അതേ ഒബ്ജെക്ടിന്റെ മുൻവശം നമുക്ക് ഇങ്ങനെ ലഭിക്കും ഇത് ഒരു നിശ്ചിത പ്ലെയിനായി തുടരുന്നു ഇപ്പോൾ നിരീക്ഷകൻ അവിടെ നിന്ന് നോക്കുന്നു അതിനാൽ അദ്ദേഹത്തിന് ഇത് ഒബ്ജെക്ടിന്റെ വലതുവശത്തെ കാഴ്ചയായി ലഭിക്കും ഇപ്പോൾ ഈ പ്ലെയിൻ മുഴുവനായി 90 ഡിഗ്രി തിരിക്കുക അങ്ങനെ നമ്മൾ അത് തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാഴ്ച ലഭിക്കും അതുപോലെ ആ പ്ലെയിനിലുള്ള ഒബ്ജെക്ടിന്റെ ടോപ് വ്യൂ ആയി നമുക്ക് ഇത് ലഭിക്കുന്നതാണ് ഈ തലം എന്ന് വിളിക്കുന്നു അതുപോലെ നമ്മൾ ആ പ്ലെയിനിന്റെ പുറകുവശത്ത് അതാര്യമായ തലം വരെ പ്രൊജക്റ്റ് ചെയ്യുകയും അങ്ങനെ മറ്റൊരു വ്യൂ ലഭിക്കുകയും ചെയ്യും പുറകുവശത്തും നമുക്കത് ഉണ്ട് അതും നമുക്ക് തുറക്കാൻ കഴിയും അങ്ങനെ അത് ആ നിലയിലേക്ക് വരുന്നു അതിനാൽ നിരവധി ലാച്ച് തരത്തിലുള്ള ഇവന്റുകളുടെ ഒരു ബോക്സിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം അതിനാൽ ഈ പ്ലെയിൻ എല്ലായ്പ്പോഴും ഉറപ്പിച്ചതായിരിക്കും അതിനെ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ആ ബോക്സിൽ ഇത് ചെയ്തുകഴിഞ്ഞാൽ ഈ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ അത് തുറക്കുന്നു അങ്ങനെ മുൻവശം അവിടെ ആയിരിക്കും നമുക്ക് അതിനെ പ്ലെയിൻ A പ്ലെയിൻ B പ്ലെയിൻ C ഇതിന്റെ പുറകു വശത്തുള്ളതിനെ പ്ലെയിൻ D താഴെയുള്ളത് പ്ലെയിൻ E അതിന്റെ പുറകുവശത്ത് പ്ലെയിൻ F എന്നിങ്ങനെ നാമകരണം ചെയ്യാം ഇപ്പോൾ നമ്മൾ അത് തുറക്കുമ്പോൾ ഒരു പ്ലെയ്ൻ A അവിടെ ഉണ്ടാകും പ്ലെയ്ൻ B മുകളിൽ വരുന്നു പ്ലെയ്ൻ C ഈ തലത്തിൽ വരുന്നു പ്ലെയ്ൻ D അതിൽ ഒരു പെട്ടി പോലെ തുറക്കുന്നു പുറകുവശത്ത് പ്ലെയ്ൻ F രണ്ടുതവണ നമ്മൾ അത് തുറക്കാൻ പോകുന്നു അങ്ങനെ അത് വരുന്നു ഈ ദിശയിൽ F അവശേഷിക്കുന്ന പ്ലെയ്ൻ E എന്നിവ ആ തലത്തിൽ വരുന്നു ഈ ബോക്സും അവയുടെ പ്രൊജക്ഷനുകളും നമ്മൾ തുറക്കുന്ന രീതി ഇതാണ് ഇവയെല്ലാം തുറന്നുകാണിച്ചതിന് ശേഷം നമ്മൾ ഇതിന് പേരിടുകയാണെങ്കിൽ മുൻവശം മധ്യഭാഗത്തായിരിക്കും അതിനെ പിന്തുണച്ചു കൊണ്ട് നമുക്ക് ഒരു ബോട്ടം വ്യൂ ഇവ ഉണ്ടാകും ഇതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷന് ഉള്ളത് കാരണം ഫ്രന്റ് വ്യൂ മുകളിൽ ടോപ് വ്യൂ വലതുവശത്ത് റൈറ്റ് സൈഡ് വ്യൂ നല്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ഒരു വസ്തു ഉദാഹരണം എടുത്ത് നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ വ്യൂസ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒബ്ജക്റ്റ് നമുക്ക് പടിപടിയായി പോകാം ആദ്യത്തേത് ഒരുപക്ഷേ ഒരു ഗ്ലാസ് ബോക്സ് നിർമ്മിക്കുന്നതായിരിക്കും എളുപ്പം തുടർന്ന് നമ്മൾ ഈ ഗ്ലാസ് ബോക്സ് രീതിയിലൂടെ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ മുഴുവൻ കാര്യങ്ങളും ഈ വ്യൂസിലേക്കു പ്രോജക്റ്റ് ചെയ്യുന്നു തുടർന്ന് ഈ ബോക്സ് തുറക്കുക അതിനാൽ മുൻവശം ഈ ലെവലിൽ വരുന്നു മുകളിലെ വ്യൂ അവിടെ വരുന്നു വലതുവശത്തെ വ്യൂ ഈ തലത്തിൽ വരുന്നു ഇടതുവശത്തെ വ്യൂ ആ തലത്തിലും പിന്നിലെ വ്യൂ ഈ തലത്തിലും വരുന്നു അതിനാൽ നമ്മൾ ഗ്ലാസ് ബോക്സ് രീതി ഉപയോഗിച്ച് ഡ്രോയിംഗ് ഷീറ്റിൽ ഇതെല്ലാം പുനഃക്രമീകരിക്കുകയാണെങ്കിൽ പ്രൊജക്ഷനുകൾ ഡ്രോയിംഗ് ഷീറ്റിൽ ഈ രീതിയിൽ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ മറ്റ് പ്രൊജക്ഷൻ രീതികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം